അതിനാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അവസാന മൊഡ്യൂളിനെയാണ് ഹൈബ്രിഡ് മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത് അതിനാൽ തീർച്ചയായും ഹൈബ്രിഡ് രീതികൾ എന്താണെന്ന് പ്രചോദിപ്പിക്കുകയും ഒരു ഹൈബ്രിഡ് രീതിയുടെ ഒരു പ്രത്യേക ഉദാഹരണം നൽകുകയും വേണം അപ്പോൾ ഹൈബ്രിഡ് എന്ന വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഇതുവരെ ഞങ്ങൾ ഓരോ രീതികൾ ആയി പഠിച്ചു നമ്മൾ ഇന്റഗ്രൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി നമ്മൾ പരിമിതമായ ഘടകം നോക്കി തുടർന്ന് ഞങ്ങൾ പരിമിതമായ വ്യത്യാസ സമയ ഡൊമെയ്ൻ നോക്കി ഓരോ രീതിക്കും അതിന്റെതായ ഗുണവും ദോഷവും ഉണ്ട് ഹൈബ്രിഡ് രീതികൾ എന്നത് നമ്മൾ ഒന്ന് സംയോജിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് രീതികളെങ്കിലും സംയോജിപ്പിക്കുകയോ ചെയ്യുന്ന രീതികളാണ് അതിനാൽ രണ്ട് രീതികളുടേയും ഗുണങ്ങൾ നമുക്ക് ഒരു തരത്തിലുള്ള ഫോർമുലേഷനായി എടുക്കാം പ്രത്യേകിച്ചും ഈ മൊഡ്യൂളിൽ പരിമിതമായ എലമെന്റ് മെത്തേഡ് എങ്ങനെ ബൌണ്ടറി ഇന്റഗ്രൽ മെത്തേഡുമായി സംയോജിപ്പിക്കാമെന്ന് നമ്മൾ കാണാൻ പോകുന്നു അതിനാൽ ഇതിന് പിന്നിലെ ഏറ്റവും നിർദ്ദിഷ്ട അനുമാനം പ്രചോദിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഈ രീതികൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അവ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതിനാൽ നമുക്ക് ഏത് ഉദാഹരണവും എടുക്കാം ഞാൻ എടുക്കുന്ന ഒരു പ്രത്യേക ഉദാഹരണം ഒരു ചിതറിപോവുന്ന പ്രശ്നത്തിന്റെയാണ് അതിനാൽ ചിതറിപോവുന്ന പ്രശ്നം ഒരു പ്രത്യേക പ്രശ്നമാണ് ഉദാഹരണത്തിന് ഒരു വിമാനം ഉണ്ട് ഇത് ഒരു വിമാനമായിരിക്കണം അതിനുള്ളിൽ ചില വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വസ്തുവിന്റെ RCS കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു എനിക്ക് ഇത് പരിഹരിക്കണമെങ്കിൽ അതിനാൽ നമുക്ക് ഒരു യഥാർത്ഥ കേസ് എടുക്കാം മുഴുവൻ വസ്തുവും ഒരു പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് ഞാൻ പരിഗണിക്കരുത് വിമാനം അതിന് ഒരു ലോഹ കവചം ഉണ്ടായിരിക്കും അതിന് ഒരു ഗ്ലാസ് കോക്ക്പിറ്റ് ഉണ്ടായിരിക്കും അതിന് ചില പ്ലാസ്റ്റിക് ഘടകങ്ങൾ ഉണ്ടായിരിക്കും റബ്ബർ ടയർ അവയെല്ലാം വ്യത്യസ്ത വ്യത്യസ്ത ഘടകങ്ങളാണ് അതിനാൽ യാഥാർത്ഥ്യബോധത്തോടെ എനിക്ക് ഈ വസ്തുവിന്റെ അതിരുകൾ വേർതിരിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എനിക്ക് കുറച്ച് വോളിയം രീതി ആവശ്യമാണ് അതിനാൽ നമുക്ക് അറിയാവുന്ന വോളിയം രീതികൾ എന്തൊക്കെയാണ് ബഹിരാകാശത്തിന്റെ പ്രവർത്തനമെന്ന നിലയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്ന് നമ്മൾക്ക് അറിയാവുന്ന രീതികൾ എന്തൊക്കെയാണ് വോളിയം ഇന്റഗ്രൽ രീതിയുണ്ട് തുടർന്ന് ഫിനിറ്റ് എലമെന്റ് രീതിയുണ്ട് അവിടെ ഞാൻ ഉള്ളിലേക്ക് പോയി ഒരു വസ്തുവിന്റെ ഉൾഭാഗം ശരിയായി വിവേചനം ചെയ്യുന്നു ഈ ബൌണ്ടറി ഇന്റഗ്രൽ രീതി ഈ പ്രശ്നത്തിന് ഒരു സർഫസ് ഇന്റഗ്രൽ രീതി ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും പ്രശ്നം ഇന്റഗ്രൽ സമവാക്യങ്ങളിൽ ഹ്യൂജൻസ് തത്വം ഉപയോഗിച്ച് എന്റെ അറിയാത്തതിനെ ഇതിന്റെ ഏറ്റവും പുറത്തുള്ള അതിർത്തിയാക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയും ഞാൻ സർഫസ് ഇന്റഗ്രൽ ഫോർമുലേഷൻ ഉപയോഗിച്ചാൽ ഇതിലെ സാങ്കേതിക ബുദ്ധിമുട്ട് എന്താണ് അതിർത്തി സങ്കീർണ്ണമായേക്കാം കൂടുതൽ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളി എന്താണ് വിദ്യാർത്ഥി ഗ്രീനിന്റെ പ്രവർത്തനം Green's function ആ മാധ്യമത്തിനായുള്ള ഗ്രീൻ ഫംഗ്ഷൻ Green's function കണക്കാക്കുന്നത് എളുപ്പമല്ല ശൂന്യ സ്ഥലത്തിനായുള്ള ഗ്രീനിന്റെ ഫംഗ്ഷൻ Green's function എനിക്കറിയാം അത് കണക്കാക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരു വൈവിധ്യമാർന്ന മാധ്യമത്തിന് ഗ്രീനിന്റെഫങ്ഷൻ Green's function സാധ്യമല്ല അതിനാൽ അതാണ് സാങ്കേതിക വെല്ലുവിളി അതുകൊണ്ടാണ് ഉപരിതല ഇന്റഗ്രൽ ഫോർമുലേഷൻ എനിക്ക് ചെയ്യാൻ കഴിയാത്തത് അതിനാൽ എന്റെ രണ്ട് ഓപ്ഷനുകൾ FEM ഉം വോളിയം ഇന്റഗ്രൽ ഫോർമുലേഷനും ആണ് അതിനാൽ കംപ്യൂട്ടേഷന്റെ കാര്യത്തിൽ FEM ഉം വോളിയം ഇന്റെഗ്രേലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് എടുക്കാം വിദ്യാർത്ഥി പ്രതികരണം ശരിയാണ് FEM എനിക്ക് സമവാക്യങ്ങളുടെ ഒരു വിരളമായ സിസ്റ്റം തന്നു വോളിയം ഇന്റഗ്രൽ എനിക്ക് സമവാക്യങ്ങളുടെ ഒരു സാന്ദ്രമായ സിസ്റ്റം നൽകുന്നു അതിനാൽ വേഗതയുടെ കാര്യത്തിൽ FEM വളരെ വേഗതയുള്ളതും വോളിയം ഇന്റഗ്രൽ കൂടുതൽ സമയമെടുക്കുന്നതുമാണ് അതിനാൽ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾക്ക് നിങ്ങൾ സാധാരണയായി FEM ഉപയോഗിക്കും കൂടാതെ പല വാണിജ്യ സോഫ്റ്റ് വെയറുകൾ FEM ഉപയോഗിക്കും അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാൽ ഈ പ്രശ്നത്തിന്റെ RCS എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു അതിനാൽ ഇവിടെയുള്ള പ്രശ്നം ഇതാണ് ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന പ്രശ്നം ഇപ്പോൾ FEM ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അത് എങ്ങനെ ചെയ്യും നിങ്ങൾ എല്ലാ ഘട്ടങ്ങളുടെയും പട്ടിക ഉണ്ടാക്കേണ്ടതില്ല എന്നാൽ പ്രധാന ഘട്ടം എന്താണ് അതിനാൽ നമ്മളുടെ വിമാനം ഒരിക്കൽ കൂടി ഉണ്ടാക്കാൻ അനുവദിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി അതിനെ ത്രികോണങ്ങളായി വിഭജിക്കുക അതിനെ ത്രികോണങ്ങളായി വിഭജിക്കുക ശരി അതിനാൽ വിഭജിക്കുക എന്നാൽ ആദ്യം എന്താണ് ഞാൻ എന്തെങ്കിലും ത്രികോണമാക്കി വിഭജിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ താൽപ്പര്യമുള്ള മേഖല എന്താണ് അത് വിമാനത്തിന്റെ അതിർത്തിയാണോ അതോ അൽപ്പം കൂടി കൂടുതലാണോ വിദ്യാർത്ഥി കുറച്ച് കൂടി കൂടുതൽ കുറച്ച് കൂടി കൂടുതൽ എന്തുകൊണ്ട് കാരണം എനിക്ക് ബൌണ്ടറി കണ്ടിഷൻ പ്രയോഗിക്കേണ്ടതുണ്ട് നമ്മൾ പഠിച്ച ഏറ്റവും ലളിതമായ ബൌണ്ടറി കണ്ടിഷൻ അബ്സോർബിങ് ബൌണ്ടറി കണ്ടിഷൻസ് ആണ് അതിനായി വസ്തുവിനും അതിർത്തി അവസാനിപ്പിക്കുന്നതിനും ഇടയിൽ കുറച്ച് വായു വിടവ് ആവശ്യമാണെന്ന് നമ്മൾ കണ്ടു അതിനാൽ ലാളിത്യത്തിനായി എനിക്ക് ഇതുപോലൊരു അതിർത്തി ഉണ്ടായിരിക്കാം ഞാൻ അത് ഒരു വൃത്തം പോലെയാണ് കാണിക്കുന്നത് പക്ഷേ അതിന് വസ്തുവിന്റെ രൂപവുമായി പൊരുത്തപ്പെടാം അതിനാൽ ഇതാണ് വായു ഇതാണ് വസ്തു ഇപ്പോൾ ഈ മുഴുവൻ മേഖലയും ത്രികോണങ്ങളായി വിഭജിക്കേണ്ടതുണ്ട് കൂടാതെ പരിമിതമായ ഘടകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ ഇത് ഇങ്ങനെയാണ് പരിഹരിക്കുന്നത് ഇത് ബാധകമാകുന്ന ഒരു ബാഹ്യ അതിർത്തിയാണ് ഇതിൽ RBC പ്രയോഗിക്കുന്നു ഇത് എനിക്ക് ഒരു വിരളമായ സിസ്റ്റം നൽകുന്നു ഒപ്പം വോളിയം ഇന്റഗ്രലിലെ പ്രശ്നം ഓർക്കുക അതിനാൽ വോളിയം ഇന്റഗ്രലിൽ ഞാൻ തിരഞ്ഞെടുക്കേണ്ട അതിർത്തി എന്തായിരിക്കും വിദ്യാർത്ഥി എയർക്രാഫ്റ്റ് കേവലം വിമാനം അതിനാൽ ഇത് ഒരു വസ്തുവാണ് പക്ഷേ പ്രശ്നം വലുതാണ് വിദ്യാർത്ഥി വലുതാണ് സമവാക്യങ്ങളുടെ ഇടതൂർന്ന സിസ്റ്റം അതിനാൽ ഇതൊരു അനുകൂല ഘടകമാണ് ഇത് ഒരു നെഗറ്റീവ് പോയിന്റ് ഇടതിങ്ങിയ സമവാക്യ സംവിധാനമാണ് അതിനാൽ ഇത് പരിഹരിക്കാൻ അപ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം സമവാക്യങ്ങളുടെ സാന്ദ്രമായ സംവിധാനം പരിഹരിക്കുന്നതിന് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ സങ്കീർണ്ണത എന്തായിരുന്നു വിദ്യാർത്ഥി എൻ ക്യൂബ് ഏകദേശം ഇത് അൽപ്പം കുറവാണ് പക്ഷേ അതിന്റെ ക്രമവും വിരളമായ സമവാക്യ വ്യവസ്ഥയും ഇതാണ് ഇത് nlog പോലെയാണ് പക്ഷേ ഇപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് log ഒരു ചെറിയ സംഖ്യയാണ് അതിനാൽ n വലുതായി വലുതായി മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരു 3 D വിമാനത്തിലേക്കോ 3 D കപ്പലിലേക്കോ പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അധികമായിത്തീരുന്നു കൂടാതെ സംഭരണ ആവശ്യകതകളും ഡെൻസ് മീറ്ററിന് n സ്ക്വയർ ഘടകങ്ങൾ സംഭരിക്കേണ്ടതുണ്ട് ഇവിടെ ഞാൻ ഒരു പോലെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ എനിക്ക് സ്കാലർ ടൈംസ് n പോലെ സംഭരിക്കേണ്ടതുണ്ട് കാരണം വിരളമായ എൻട്രികൾ മാത്രമേ അവിടെയുള്ളു അതിനാൽ അതുകൊണ്ടാണ് നിങ്ങൾ FEM മായി മുന്നോട്ട് പോകുന്നത് എന്നാൽ എനിക്ക് വായുവിൻറെ നല്ല വശം കൂടാതെ നന്നല്ലാത്ത വശവും തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു പോരായ്മയായി തോന്നുന്നു അതിനാൽ നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻ രീതികളിലേക്ക് വരുമ്പോൾ ശരിയാണ് അതിനാൽ ഇന്റഗ്രൽ ഇക്വേഷൻ രീതികളിലൂടെ ഞാൻ പ്രത്യേകിച്ച് സർഫസ് ഇന്റഗ്രൽ രീതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ സർഫസ് ഇന്റഗ്രൽ രീതികൾ ഉപരിതല അവിഭാജ്യ രീതിയിൽ ഇത് എന്റെ ഒരു വസ്തുവാണെന്ന് പറയാം ഈ അതിരുള്ള ചിലത് എന്ന് നിർവചിച്ചിരിക്കുന്നു അപ്പോൾ ഈ കേസിൽ എന്റെ സമീപനം എന്തായിരുന്നു അതിനാൽ ഇത് വോളിയം 1 ആണെന്നും വോളിയം 2 ആണെന്നും പറയട്ടെ ക്ഷമിക്കണം നമുക്ക് ഇതിനെ വോളിയം 2 എന്നും അകത്ത് എന്നും വിളിക്കാം ഞാൻ അർത്ഥമാക്കുന്നത് അതിന്റെ പുറത്തു വോളിയം 1 അതിന്റെ ഉള്ളിൽ വോളിയം 2 എന്നാണ് അതിനാൽ നമ്മൾ രണ്ടു സമവാക്യങ്ങൾ കൊണ്ടുവരുന്നു എന്തായിരുന്നു ആ സമവാക്യങ്ങളുടെ പേര് എക്സിങ്ഷൻ തിയറം അതിനാൽ നമ്മൾ എക്സിങ്ഷൻ തിയറം ഉപയോഗിക്കുന്നു എക്സിങ്ഷൻ തിയറം ഈ അജ്ഞാതമായതിനെ പരിഹരിക്കാൻ ഉപയോഗിച്ചു അജ്ഞാതമായത് എന്തായിരുന്നു ടാൻജൻഷ്യൽ ഫീൽഡുകൾ എവിടെ വിദ്യാർത്ഥി അതിരുകൾ അതിർത്തികളിൽ ഒന്ന് അതിനാൽ ടാൻജെൻഷ്യൽ ഫീൽഡുകൾ ആണ് അജ്ഞാതമായത് അതിനാൽ ഒരു 2 D പ്രശ്നത്തിൽ നമുക്ക് 2 D എടുക്കാം അതിനാൽ നമുക്ക് അത് TM ആക്കാം അപ്പോൾ എനിക്ക് അജ്ഞാതമായത് എന്തായിരുന്നു വെക്ടറും a യും ആയ ഒരു H ടാൻജെൻഷ്യൽ ഉണ്ടായിരുന്നു കൂടാതെ ഒരു ഇവ രണ്ടും അജ്ഞാതമാണ് നിങ്ങൾ സർഫസ് ഇന്റഗ്രൽ സമവാക്യങ്ങൾ ഓർക്കുക എന്റെ വേരിയബിളുകൾ തിരിചുവന്നു അവിടെ കൂടാതെ ഇവയാണ് എനിക്ക് അജ്ഞാതമായ രണ്ടെണ്ണം മറ്റൊന്ന് ആയിരുന്നു എന്റെ മറ്റേത് H ടാൻജെൻഷ്യലിന് ആനുപാതികമായിരുന്നു നമ്മൾ അതിൽ ജോലി ചെയ്തു ഇത് രണ്ടുമണി എന്റെ സമവാക്യങ്ങൾ ഇതിന് പുറമേ എന്ത് സമവാക്യം എനിക്ക് വേറെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഗ്രീനിന്റെ ഫംഗ്ഷനുകളും Green's function കൂടാതെ സ്വതന്ത്ര ഇടo ആയിരുന്നു അതിനാൽ അതിനാൽ എളുപ്പവും എന്നിരുന്നാലും ഒരു വൈവിധ്യമാർന്ന വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല അതിനാൽ വൈവിധ്യമുള്ള വസ്തു ഇല്ല നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഫറൻഷ്യൽ സമവാക്യം അവിടെയുണ്ട് വിദ്യാർത്ഥി നിങ്ങൾ എന്താണ് വിഭജിച്ച് കാണിക്കുന്നത് നിങ്ങൾ ഇത് വിഭജിച്ചാലും നിങ്ങൾക്ക് ഇത് ലഭിക്കില്ല ഇതിന് ഒരു വിശകലന ആവിഷ്കരണം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കില്ല ഏറ്റവും കൂടുതൽ ആയി നിങ്ങൾക്ക് സംഖ്യാ മൂല്യങ്ങൾ ലഭിക്കാം അതിനാൽ നിങ്ങൾക്ക് ഈ സമീപനം ഉപയോഗിക്കണമെങ്കിൽ ഓരോ തവണയും നിങ്ങൾ ഇത് സംഖ്യാപരമായി കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ എപ്സിലോൺ r നെ വിഭജിക്കേണ്ട എല്ലാ പോയിന്റുകളിലും ഒരു പരിഹാരം കാണേണ്ടതുണ്ട് വിദ്യാർത്ഥി സർ അതിർത്തി വ്യതിരിക്തമാക്കുന്ന രീതി അതിർത്തി വ്യതിരിക്തമാക്കുക ശരിയാണ് വിദ്യാർത്ഥി തുടർന്ന് അതല്ലാതെ ഉപയോഗിക്കുന്നത് ഇല്ല ഒപ്പം വിദ്യാർത്ഥി അതെ നിങ്ങൾ മൂല്യം മാറ്റുക എന്നാണ് അർത്ഥമാക്കുന്നത് ശരി ഞാൻ ഇത് വ്യക്തമാക്കണം മുൻ മൊഡ്യൂളുകളിൽ നമ്മൾ പഠിച്ച സർഫസ് ഇന്റഗ്രൽ ഫോർമുലേഷനിൽ വോളിയം 2 ആയിരുന്ന രണ്ടാമത്തെ വസ്തു തുല്യസ്വഭാവമുള്ള ഒരു വസ്തുവാണ് അതിനാൽ ശൂന്യമായ ഇടത്തിനായി എന്റെ ഹാങ്കൽ മൈ ഗ്രീനിന്റെ ഫംഗ്ഷൻ Hankel my Green's function എന്നതിന്റെ ഹാങ്കെൽ ഫംഗ്ഷൻ രൂപത്തിലായിരുന്നു ചില സ്ഥിരാങ്കങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് അതിനെ വിളിക്കാം അതിനാൽ മാധ്യമം മാറിയപ്പോൾ പക്ഷേ അത് തുല്യസ്വഭാവമുള്ളതായി തുടരുമ്പോൾ എനിക്ക് ഈ k യെ ആ മാധ്യമത്തിന്റെ k ഉപയോഗിച്ച് മാറ്റാൻ കഴിയും എന്നാൽ മാധ്യമം വ്യത്യസ്ത ഗുണമുള്ളതാണെങ്കിൽ ഒരേ സ്വഭാവഗുണമുള്ളതല്ലെങ്കിൽ k യ്ക് അർത്ഥമില്ല അത് യഥാർത്ഥത്തിൽ ഇതാണ് അതിനാൽ അത് ഈ ഹാങ്കെൽ ഫംഗ്ഷൻ ആയിരിക്കില്ല വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇത് അടുത്ത രൂപത്തിൽ എഴുതാൻ കഴിയില്ല വിദ്യാർത്ഥി സർ അപ്പോൾ നിങ്ങൾ സർഫസ് ഇന്റെഗ്രേലിലേക്ക് ആണ് അടുക്കുന്നത് അതിനാൽ സർഫസ് ഇന്റഗ്രൽ അതായത് വസ്തുക്കൾ ഏകതാനമാകുമ്പോൾ സർഫസ് ഇന്റഗ്രൽ സമവാക്യങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് ഇത് ചില സന്ദർഭങ്ങളിൽ സംഭവിക്കാം അവ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ FEM അല്ലെങ്കിൽ വോളിയം ഇന്റഗ്രൽ പോലുള്ള ചില വോളിയം ഡിസ്ക്രിറ്റൈസേഷൻ രീതിയിലേക്ക് പോകും കാരണം ഇത് കണക്കാക്കുന്നത് ഇതിന് കഴിയും പക്ഷേ അത് സംഖ്യാപരമായി മാത്രമേ ചെയ്യാൻ കഴിയൂ അത് ചെലവേറിയതാണ് അതിനാൽ നിങ്ങൾ അത് ശരിയായി തിരഞ്ഞെടുക്കുന്നില്ല അതിനാൽ ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ ഇപ്പോൾ ചോദ്യം നിങ്ങൾ തിരിഞ്ഞുനോക്കിയാൽ FEM ന് വളരെ നല്ല നേട്ടം ഉണ്ടായിരുന്നു അത് എനിക്ക് വിരളമായ ഒരു സംവിധാനം നൽകി അത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും എന്നാൽ ഈ അധിക വായു പ്രദേശം വിഭജിക്കേണ്ടതുണ്ട് വായുവിനെ വിഭജിക്കുന്നതിന് പുറമെ ഇതിലെ മറ്റേതെങ്കിലും പ്രശ്നമായിരുന്നു അത് വിദ്യാർത്ഥി അതിർത്തി അതിരിനൊപ്പം അതെ അതിർത്തിയുടെ കാര്യമോ അതെ ഒരു റേഡിയേഷൻ ബൌണ്ടറി കണ്ടിഷൻറെ പ്രശ്നം എന്താണ് വിദ്യാർത്ഥി കാരണം അവ എല്ലായ്പ്പോഴും സാധാരണമല്ല ശരിയാണ് അല്ലേ അതിനാൽ തരംഗം തമ്മിൽ ഇടിക്കുമ്പോൾ നമ്മൾ കണക്കാക്കിയ ബൌണ്ടറി കണ്ടിഷൻ കൃത്യമായി ശരിയായിരുന്നു എന്നാൽ ഏതെങ്കിലും കോണിൽ ഒരു തരംഗം അതിനെ അടിച്ചാൽ പിഴവ് പൂജ്യമല്ല എന്ന് നമ്മൾ കണ്ടു അതിനാൽ വായു വിവേചനം ചെയ്യുന്നതിനുപുറമെ എനിക്ക് കൃത്യമല്ലാത്ത ബൌണ്ടറി കണ്ടിഷൻറെ പ്രശ്നമുണ്ട് അതേസമയം സർഫസ് ഇന്റഗ്രൽ ഫോർമുലേഷൻ നോക്കുമ്പോൾ നമ്മൾക്ക് ബൌണ്ടറിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എക്സിടിൻഷൻ സിദ്ധാന്തം ടാൻജൻഷ്യൽ ഫീൽഡുകൾ അനുസരിക്കുന്ന കൃത്യമായ ബന്ധമാണ് നമ്മൾ അനുമാനങ്ങളൊന്നും നടത്തിയില്ല നമ്മൾക്ക് വായുവൊന്നും ഉൾപ്പെടുത്തേണ്ടതില്ല അത് കൃത്യമായ ബന്ധമാണ് അതിനാൽ നമ്മൾക്ക് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ നിർദ്ദേശം എന്തായിരിക്കും FEM ന്റെ ഗുണങ്ങളും സർഫസ് ഇന്റഗ്രൽ ഫോർമുലേഷന്റെ ഗുണങ്ങളും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനാൽ CEM എങ്ങനെയെന്ന് അറിയാവുന്ന ഒരു എഞ്ചിനീയറെപ്പോലെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇവ രണ്ടിന്റെയും പോരായ്മ നീക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ത്രികോണത്തിന്റെ അറ്റങ്ങൾ അതിരുകൾ ഉണ്ടാക്കുന്നു അതെ ഇപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡൊമെയ്നിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ മുഴുവൻ ഡൊമെയ്നും എന്ന് നിങ്ങൾ പറയുന്നു വിദ്യാർത്ഥി ഇല്ല വിദ്യാർത്ഥി നിങ്ങൾക്ക് വേണ്ടത് അതിനാൽ നിങ്ങളുടെ നിർദ്ദേശം ഇങ്ങനെയുള്ള ബൌണ്ടറിയിൽ നിന്ന് ആരംഭിക്കുക എന്നതാണ് വിദ്യാർത്ഥി തുടർന്ന് ത്രികോണങ്ങളാക്കി വിഭജിക്കുന്നു ത്രികോണങ്ങൾ ആയി വിഭജിക്കുന്നു ശരി അപ്പോൾ വിദ്യാർത്ഥി പിന്നെ എങ്ങനെ നേടണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ അത് പരിവർത്തനം സംഭവിച്ച് കൊണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ശരി നമ്മൾക്ക് ഒരുതരം ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ വസ്തുവിന്റെ ഉള്ളിൽ FEM ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വിദ്യാർത്ഥി സർ നമുക്ക് ത്രികോണത്തിന്റെ അരികിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ടോ അതെ FEM ൻറെ കാര്യത്തിൽ അതിരിലെ എല്ലാ ഘടകത്തിനും തീർച്ചയായും അതിർത്തി വ്യവസ്ഥ ബാധകമാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു വിദ്യാർത്ഥി അതെ അതിർത്തിയിൽ നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി എന്നാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ അകത്തേക്ക് പോകേണ്ടതുണ്ടോ തീർച്ചയായും അതെ നിങ്ങൾ ഉള്ളിലേക്ക് പോകണം അതെ നിങ്ങൾ വിഭജിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് FEM സമവാക്യങ്ങളുടെ സിസ്റ്റം മുഴുവൻ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നും ത്രികോണങ്ങളായി വിഭജിക്കപ്പെടുന്നു വിദ്യാർത്ഥി സർ ശരിയാണ് വിദ്യാർത്ഥി അതിനാൽ നിങ്ങൾക്ക് ഒരു ത്രികോണത്തിന്റെ ഓരോന്നും സമയം കാണുക 1417 കുറയ്ക്കാം അതിനാൽ അത് ഉപയോഗിക്കുക എന്നതാണ് നിങ്ങളുടെ നിർദ്ദേശം അതിനാൽ ബൌണ്ടറി ഇന്റഗ്രൽ മാത്രം ഉപയോഗിക്കുക എന്നതാണ് നിർദ്ദേശം പക്ഷേ അതിനെ കഷണങ്ങളായി ഏകതാനമായ പ്രദേശങ്ങളാക്കി മാറ്റുക എല്ലാ കാര്യങ്ങളിലും പെരുക്കി ശരിയാക്കിയ ഒരു റീജിയണും അജ്ഞാതമായ ടാൻജൻഷ്യൽ ഫീൽഡുകളും ചെയ്യുക അത് വളരെ മടുപ്പിക്കുന്നതാണ് അതിനാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ശരിയായ പാതയിലാണ് തുടർന്ന് നിങ്ങൾ വ്യതിചലിച്ചു ഇന്റീരിയർ ഒബ്ജക്റ്റുകൾക്കായി FEM ഉപയോഗിക്കുക അതിനർത്ഥം ഞാൻ ഇന്റീരിയർ ബൌണ്ടറി ലെഫ്റ്റ് ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നു വായു വിഭജിക്കുന്നതിന്റെ പ്രയാസം എടുക്കേണ്ടതില്ല ഞാൻ തീരുമാനിച്ചു കൂടാതെ കൃത്യമല്ലാത്ത അതിർത്തി വ്യവസ്ഥയുടെ പ്രയാസവും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ FEM ന്റെ ഭാഗം ഞാൻ അതിർത്തി വ്യവസ്ഥ ചുമത്തുന്നു ABC പ്രയോഗിക്കുന്നതിനുപകരം ഞാൻ പ്രയോഗിക്കുന്ന ഭാഗമാണോ ഞാൻ എങ്ങനെയെങ്കിലും ബൌണ്ടറി ഇന്റഗ്രൽ സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നു കാരണം അവ കൃത്യവും അവ അതിർത്തിക്കരികിലുമാണ് അതിനാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതിന്റെ തന്ത്രം ഇതാണ് ആശയപരമായ വിശ്വാസം അതിനാൽ ഇന്റീരിയർ വസ്തുക്കൾക്കും FEM ഉപയോഗിക്കുക അതിനാൽ ഞാൻ അതിനെ സർഫസ് ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നതിനുപകരം ആരംഭിക്കാൻ പോകുന്നു അതിനെ BI ബൌണ്ടറി ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു ABC ക്ക് പകരം ബൌണ്ടറി ഇന്റഗ്രൽ ഉപയോഗിക്കുക അതാണ് നമ്മുടെ സമീപനം അത് ഉയർന്ന തലത്തിൽ ശരിയാകും അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ നിർവഹിക്കാം എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി പോകാം പക്ഷേ പ്രചോദനം വ്യക്തമാണ് എങ്ങനെയെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് വായു വിഭചിക്കപ്പെടില്ല മാത്രമല്ല ബൌണ്ടറി കണ്ടിഷൻറെ കൃത്യത നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും